ഹലോ എല്ലാവർക്കും സെക്യൂരിറ്റി സിസ്റ്റം എൻജിനീയറിങ് NPTEL കോഴ്സ്ഇൻറെ വിവരണത്തിലേക്ക് സ്വാഗതം ഈ വിവരണത്തിലും അത് കഴിഞ്ഞുള്ള വിവരണത്തിലും നമ്മൾ പേലോഡ് എങ്ങിനെ പ്രോഗ്രാമിലേക്ക് ഇഞ്ചക്ട്യ് ചെയ്യാം എന്നാണ് കാണുന്നത് കൂടാതെ എങ്ങിനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നും കാണാം പ്രത്യേകിച്ച് നമ്മൾ payload വിശദമായി പഠിക്കാം കൂടാതെ അടിസ്ഥാനപരമായി payload എങ്ങിനെ എവിടെ മാറ്റാം എന്നും കാണുന്നു നമ്മൾ വേറെ എല്ലാ വീഡിയോസും ചെയ്തതു പോലെ ഈ കോഡ് ബിറ്റ് ബക്കറ്റ് റിപ്പോസിറ്ററീ ഇൽ ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് nptel codesmodule2ലേക്ക് പോയിട്ട് testcode c ഫയൽ തുറക്കാം ഇത് ചെറിയ C പ്രോഗ്രാമാണ് ഇതിൽ രണ്ടു ഫങ്ഷനുകൾ ആണുള്ളത് copier ഫംഗ്ഷനും main ഫംഗ്ഷനും main function കമാൻഡ് ലൈൻ argument ആയി സ്വീകരിച്ച argv1 വാല്യൂ copier function ലേക്ക് പാസ് ചെയ്യുന്നു copier function argv1ൻറെ content ബഫർ എന്ന് വിളിക്കുന്ന ക്യാരക്ടർ Arrayലേക്ക് കോപ്പി ചെയ്യുന്നു strcpy ഫംഗ്ഷൻ argv1 വാല്യൂ ബഫർ ലേക്ക് ഒരു '0' അഥവാ null character കിട്ടുന്നതു വരെ കോപ്പി ചെയ്യുന്നു നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ പ്രോഗ്രാംൻറെ vulnerability ആണ് Vulnerability വന്നത് strcpy function ഇൽ കൂടെയാണ് യൂസറിന് argv1ഇൽ എത്ര കാരക്ടർ വേണമെങ്കിലും കൊടുക്കാം കൂടാതെ 100 bytes data യിൽ ഒരു null termination character കണ്ടില്ലെങ്കിൽ ബഫർ overflow error ഉണ്ടാകും ആദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട gcc ഓപ്ഷൻ ഉപയോഗിച്ചു കൊണ്ട് testcode executable ചെയ്യാം ഇപ്പോൾ നമുക്ക് ഉദാഹരണം 5A വാലിഡ് ഇൻപുട്ട് ഉപയോഗിച്ച് testcode റൺ ചെയ്യാം പ്രോഗ്രാം execute ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 'done' എന്ന് സ്ക്രീനിൽ കാണാം അതുകൊണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നാൽ STR ഇൽ ഉള്ള string ബഫറിലേക്ക് കോപ്പി ചെയ്യുകയാണ് Copier ഫംഗ്ഷൻ റിട്ടേൺ ആകുമ്പോൾ "done" എന്ന് പ്രിൻറ് ചെയ്തിട്ടുണ്ടാകും നമ്മൾ ഇൻപുട്ട് character ഇനൻറെ എണ്ണം 100 bytes നേക്കാൾ കൂട്ടുമ്പോൾ പ്രോഗ്രാം ഒരു segmentation fault ഓടുകൂടി അവസാനിക്കും

നമ്മൾ argv1ൽ ഒരു വലിയ വാല്യൂ കൊടുത്തു കൊണ്ടും ലൈൻ നമ്പർ 10 ഇൽ ഒരു ബ്രേക്ക് പോയിൻറ് ഇട്ടു കൊണ്ടുംGDB റൺ ചെയ്യാം ഇവിടെ argv1ഇൽ ധാരാളം A's ഉണ്ട് നമ്മൾ പ്രോഗ്രാം GDBയിൽ കൂടി run ചെയ്യുന്നത് കൊണ്ട് നമുക്ക് number 10ൽ ഒരു ബ്രേക്ക് പോയിൻറ് കിട്ടും ഇവിടെ break point ഹിറ്റ് ചെയ്തിട്ട് നമ്മൾ വേറൊരു break point ലൈൻ നമ്പർ 7 ഇടുന്നു ലൈൻ നമ്പർ 7 കാണിക്കുന്നത് copier ഫംഗ്ഷൻ അവസാനമാണ് അതുകൊണ്ട് strcpy അതിൻറെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ലൈൻ നമ്പർ 7 നമ്മൾക്ക് കിട്ടുന്നത് അങ്ങനെ നമ്മൾക്ക് ലൈൻ നമ്പർ 7 ബ്രേക്ക് ചെയ്യാൻ പറ്റി പ്രോഗ്രാം തുടർന്ന് execute ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കമാൻഡ് C കൊടുക്കുന്നു നമ്മൾ ഇവിടെ STR 41414141 കാണുന്നു Error എന്താണെന്നുവെച്ചാൽ പ്രോഗ്രാംന് മെമ്മറി അഡ്രസ്സ് 0x41414141 ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ കുറച്ചുകൂടി detail ആയി അന്വേഷിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് ബ്രാക്കറ്റിനുള്ളിൽ കാണിച്ചിട്ടുള്ള commands gdb info registers esp gdb x32x esp മുഖാന്തരം കിട്ടിയ stackലെ മുഴുവൻ content ഉം നോക്കാം stackലെ മുഴുവൻ content ഉം 41's ആണ് character A യുടെ ASCII value 41ആണ് അതുകൊണ്ട് buffer Over flow ആയി stack മുഴുവനും A യുടെ കണ്ടൻറ് കൊണ്ടു നിറഞ്ഞു അതിനാൽ return address 41414141 കൊണ്ട് ഫില്ല് ചെയ്യുന്നു Copier ഫംഗ്ഷൻ മടങ്ങുമ്പോൾ അതിന് സ്റ്റാക്കിൽ നിന്ന് റിട്ടേൺ വിലാസം 41414141 ആയി ലഭിക്കും ഈ address ലെ instruction ലോഡുചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ഒരു ഒരു segmentation fault ലേക്ക് നയിക്കും ഇത് ഇൻവാലിഡ് ലൊക്കേഷനാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ testcode എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു പ്രത്യേക payload execute ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരു പ്രോഗ്രാം crash ചെയ്യുന്നതിന് പകരം പ്രത്യേക payload എടുത്തു കൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം എങ്ങനെ execute ചെയ്യാം എന്ന് നോക്കാം